ഹലോ സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള എൻ മൂക്ക് മൂക്ക് കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ കാൺപൂർ ഐ ടിയിൽ നിന്നുള്ള രവി ചന്ദ്രനാണ് ഞാൻ നിങ്ങൾക്ക് കോഴ്സ് നൽകുന്നു ഞാൻ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസ് വിഭാഗത്തിൽ നിന്നുമാ ണ് ഇത് ഈ കോഴ്സിന്റെ മൂന്നാമത്തെ ആഴ്ചയാണ് നമ്മൾ ഈ മൂന്നാമത്തെ ആഴ്ചയിലെ മൊഡ്യൂൾ 6 ലാണ് മൊത്തത്തിൽ നമ്മൾ 18 ാം പ്രഭാഷണം പൂർത്തിയാക്കാൻ പോകുന്നു ഈ ആഴ്ച ഇത് അവസാന പ്രഭാഷണമാണ് അത് പൂർണ്ണമായും ശീലങ്ങൾക്കായി നീക്കിവച്ചിരിക്കുന്നു ശീലങ്ങൾ എന്തൊക്കെയാണ് നല്ല ശീലങ്ങൾ രൂപപ്പെടുത്തൽ മോശം ശീലങ്ങൾ രൂപപ്പെടുത്തൽ തുടർന്ന് ഡോപാമൈൻ പോലുള്ള ശീലങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിവയെല്ലാംചർച്ച ചെയ്യുന്നു ഇപ്പോൾ ഈ പ്രഭാഷണത്തിൽ പ്രത്യേകിച്ചും മോശം ശീലങ്ങളെ മറികടക്കുന്നതിലും വിജയ ശീലങ്ങൾ രൂപപ്പെടുത്തുന്നതിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു നിങ്ങളുടെ വ്യക്തിത്വം വികസിപ്പിക്കുകയും പിന്നീട് അവയെ വളർച്ചാ ശീലങ്ങളായി വികസിപ്പിക്കുകയും ചെയ്യേണ്ട ആ ശീലങ്ങൾ എന്തൊക്കെയാണ് പതിവുപോലെ ആരംഭിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഒരു ഹ്രസ്വ ഹൈലൈറ്റ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുവഴി നമ്മൾ ചെയ്ത കാര്യങ്ങൾ വേഗത്തിൽ വീണ്ടെടുക്കുകയും തുടർന്ന് നിലവിലുള്ളതുമായി തുടരുകയും ചെയ്യും പ്രത്യേകിച്ചും അവസാനത്തേതിൽ ഉൽപ്പാദനക്ഷമതയ്ക്കും വ്യക്തിഗത വളർച്ചയ്ക്കും സൈഗോർണിക് പ്രഭാവം ഉപയോഗിക്കുന്നതിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഞാൻ ഈ വസ്തുതയ്ക്ക് ഊന്നൽ നൽകി കാരണം പൂർത്തിയാകാത്ത പ്രവർത്തനം ഉത്കണ്ഠ നൽകുന്നതിനാൽ അത് നിങ്ങൾക്ക് വിഷാദത്തിന് പോലും കാരണമാകും ഒരു പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അത് പൂർത്തിയാകുന്നതുവരെ അതിൽ ഉറച്ചുനിൽക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് അതിനാൽ നിങ്ങൾ ഈ സുവർണ്ണ നിയമം മനസ്സിൽ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ അത് ആരംഭിക്കുകയാണെങ്കിൽ അത് പൂർത്തിയാക്കുക അതിനിടയിൽ ഉപേക്ഷിക്കരുത് ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാന വളർച്ചാ ശീലമാണ് ഈ അറിവ് മാത്രം കാലതാമസം മറികടക്കാൻ നിങ്ങളെ സഹായിക്കുന്നു ഇത് ഒരു ആരംഭ പ്രശ്നം മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ എങ്ങനെയെങ്കിലും ആരംഭിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ അത് എന്തായാലും പൂർത്തിയാക്കും ഈ ജോലികൾ വീണ്ടും പൂർത്തിയാക്കേണ്ടതുണ്ട് കാരണം അവ നിങ്ങളുടെ തലച്ചോറിലെ പ്രീമിയം ഇടം കൈവശപ്പെടുത്തുകയും തടയുകയും ചെയ്തുകൊണ്ട് വലിയ അളവിൽ മാനസിക വിഭവങ്ങൾ ഉപയോഗിക്കുന്നു പക്ഷേ നിങ്ങൾ അത് പൂർത്തിയാക്കുന്നതുവരെ അവ പോകാൻ വിസമ്മതിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾ ടെലിവിഷൻ സീരിയലുകളോ ഏതെങ്കിലും സീരിയലൈസ്ഡ് പ്രോഗ്രാമുകളോ കാണുന്നത് നിർത്തേണ്ടത് കാരണം അവ നിങ്ങളുടെ തലച്ചോറിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നു അവ അവിടെ തൂങ്ങിക്കിടക്കുന്നു പരമാവധി വിഭവങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നാൽ കഥ പൂർത്തിയാകുന്നതുവരെ മസ്തിഷ്കം മനസ്സിലാക്കുന്നതുവരെ ആരാണ് എന്താണ് ചെയ്തതെന്നും ആ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചതെന്നും നിങ്ങൾ അറിയുന്നതുവരെ ഇത് നിങ്ങളെ വീണ്ടും വീണ്ടും വളരെ ആസക്തിയുള്ള രീതിയിൽ അതിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിക്കുകയും തുടർന്ന് നിങ്ങളുടെ ഭൂരിഭാഗം സമയവും ഉപയോഗിക്കുകയും ചെയ്യും സീരിയൽ ഒരു അർത്ഥശൂന്യമായ സമയത്തിലേക്ക് എത്തുകയാണെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ നിങ്ങൾ അതിന് അടിമകളായതിനാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തുവരാൻ കഴിയില്ല അത് കാണാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ശീലം അതിൽ കൂടുതലൊന്നുമില്ല സൈഗോണിക് പ്രഭാവം പശ്ചാത്തലത്തിൽ അത് പൂർത്തിയാകുന്നതുവരെ നിങ്ങൾ അത് കാണുന്നുവെന്ന് ഉറപ്പാക്കുന്നു ടെലിവിഷൻ നിർമ്മാതാക്കൾ തങ്ങളുടെ നേട്ടം പരമാവധി വർദ്ധിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നു കാരണം ഇത് പ്രേക്ഷകരുടെ മനഃശാസ്ത്രമാണെന്ന് അവർക്കറിയാം അവർക്ക് അത് പൂർത്തിയാക്കുന്നതുവരെ വർഷങ്ങളോളം ഒരുമിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയും ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് അവർ അടിമകളായിക്കഴിഞ്ഞാൽ അവിടെയുള്ള തടസ്സമില്ലാത്ത കാര്യങ്ങൾ പരിഹരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു അതിനാൽ ഇത് എല്ലായ്പ്പോഴും നിങ്ങളെ വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുകയും അവർ ഇത് ക്യാഷ് ചെയ്യുകയും ചെയ്യും ഇപ്പോൾ അതേ രീതിയിൽ വീഡിയോ ഗെയിമുകളും അതിന്റെ കളിക്കാർക്ക് ആസക്തി നൽകുന്നതിന് ഇതേ തത്വം ഉപയോഗിക്കുന്നു ഇത് അവരെ ഒരു ക്ലോഷർ ലെവലിൽ എത്താൻ അനുവദിക്കും പക്ഷേ അത് പൂർത്തിയാക്കാൻ അവരെ അനുവദിക്കില്ല അതിനാൽ സൈഗോണിക് ഇഫക്റ്റിന്റെ ആന്തരികവൽക്കരണം ഏത് പ്രവർത്തനവും നേടുന്നതിനോ മികവ് പുലർത്തുന്നതിനോ നിങ്ങൾക്ക് ആവശ്യമായ ആന്തരിക പ്രചോദനം നൽകും നിങ്ങളുടെ ആന്തരിക കാമ്പ് വികസിപ്പിക്കേണ്ടതുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിനാൽ നിങ്ങളുടെ ഉള്ളിലെ ആന്തരികവൽക്കരണം മനസ്സിൽ വയ്ക്കുക പൂർത്തിയാക്കുന്ന പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഉൽപ്പാദനക്ഷമത നേടുന്നതിന് ഈ പ്രഭാവം ഉപയോഗിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഏതൊരു ശ്രമത്തിലും നിങ്ങളെ മികവ് പുലർത്താൻ പോകുന്നു നിങ്ങളുടെ തലച്ചോറിനെ പൂർത്തീകരണത്തിനായി റീവൈർ ചെയ്യാൻ കഴിയും കാരണം അത് നിങ്ങളെ പിരിമുറുക്കം പരിഹരിക്കുന്നതിലേക്ക് കൊണ്ടുപോകുകയും ഫീൽ ഗുഡ് ഫാക്ടർ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് നല്ലതായി തോന്നുന്ന ഒരു പ്രവർത്തനം നിങ്ങൾ ചെയ്യുന്നു നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ താൽപ്പര്യമുണ്ടെന്ന് തോന്നുന്ന മറ്റൊന്ന് ചെയ്യുക ഒന്നിനുപുറകെ ഒന്നായി അപൂർണ്ണമായ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കുന്നതിനുപകരം നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുവെന്നും ഒന്ന് പൂർത്തിയാക്കി മറ്റൊന്നിലേക്ക് പോയാൽ നിങ്ങളുടെ ആത്മവിശ്വാസം എങ്ങനെ വികസിക്കുന്നുവെന്നും കാണുക അതിനാൽ നിങ്ങളുടെ വ്യക്തിത്വം വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മന്ത്രമായി ഇത് സൂക്ഷിക്കുക നിങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് പൂർത്തിയാക്കുക ഇപ്പോൾ ഈ ആഴ്ചയിലെ അവസാന പ്രഭാഷണത്തിൽ നമുക്ക് ആദ്യം മോശം ശീലങ്ങൾ തകർക്കുന്നതിനെക്കുറിച്ച് നോക്കാം ഇതിനുമുമ്പ് വിജയത്തിന്റെ കാര്യത്തിൽ ഈ നല്ല ശീലങ്ങളും നല്ല ശീലങ്ങളും എങ്ങനെ രൂപപ്പെടുത്താമെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ മോശം ശീലങ്ങൾ തകർക്കുന്ന പ്രക്രിയയിൽ തലച്ചോറിന്റെ റീവൈറിംഗ് ഹാബിറ്റ് ചെയിൻ ലൂപ്പ് പുനക്രമീകരിക്കൽ എന്നിവ ഉൾപ്പെടുന്നു നല്ലതും ചീത്തയും വേർതിരിച്ചറിയാൻ തലച്ചോറിന് അറിയില്ല ഈ ശീലം വളരെ രസകരമാണ് നിങ്ങൾ ഒരു നല്ല ശീലം വളർത്തിയെടുത്താലും മോശം ശീലം വളർത്തിയാലും മസ്തിഷ്കം ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നിട്ട് നിങ്ങളിൽ ആനന്ദത്തിന്റെ ഭാഗം പുറത്തുവിടുന്നതിന് അതേ തരത്തിലുള്ള കാര്യങ്ങൾ തിരികെ ലഭിക്കാൻ ശ്രമിക്കുന്നിടത്തോളം കാലം അത് ഡോപാമൈൻ പുറത്തുവിടുന്നു ഇപ്പോൾ നിങ്ങൾ എങ്ങനെ ഒരു മോശം ശീലം നിർത്തും നിങ്ങൾ ചെറിയ കഷണങ്ങളായി ആരംഭിച്ച രീതി നിർത്തുക എന്നതാണ് ഉത്തരം നിങ്ങൾ എങ്ങനെയാണ് ഏതെങ്കിലും മോശം ശീലം ആരംഭിച്ചതെന്ന് ഓർക്കുക നിങ്ങൾ ഒറ്റരാത്രികൊണ്ട് ആരംഭിച്ചില്ല തുടർന്ന് നിങ്ങൾ ആരംഭിച്ച ദിവസം തന്നെ അത് മുഴുവനായും നിങ്ങൾ ആരംഭിച്ചതല്ല നിങ്ങൾ ഒരു പുകവലിക്കാരനാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ആദ്യം പുകവലി ആരംഭിച്ചത് എന്ന് ഓർക്കുക ആരെങ്കിലും നിങ്ങൾക്ക് ആദ്യത്തെ പഫ് നൽകിഏതായിരിക്കും തുടർന്ന് നിങ്ങൾക്ക് ചുമ വന്നു നിങ്ങൾക്ക് അതിന്റെ മണം പോലും സഹിക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് നിങ്ങൾ അത് എറിഞ്ഞു രണ്ടാം ദിവസം വീണ്ടും നിങ്ങൾ സിഗരറ്റ് അൽപ്പം കൂടുതൽ എടുത്തു പക്ഷേ വീണ്ടും കൂടുതൽ ചുമ അതിനാൽ നിങ്ങൾക്ക് അത് സഹിക്കാൻ കഴിഞ്ഞി ല്ല മൂന്നാമത്തെ ദിവസം ഒന്ന് മുഴുവനായിരിക്കാം നാലാമത്തെ ദിവസം വീണ്ടും ഒരു ആഴ്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് രണ്ടിലേക്ക് പോകാമെന്ന് നിങ്ങൾ കരുതുന്നു നിങ്ങൾ ആരംഭിച്ച ദിവസം നിങ്ങൾ ഒരു ചെയിൻ പുകവലിക്കാരനായിരുന്നില്ല നിങ്ങൾ ഒരു ചെയിൻ പുകവലിക്കാരനാകാൻ വർഷങ്ങളെടുക്കും എന്നാൽ ഇപ്പോൾ അത് നിങ്ങളെ അടിമകളാക്കിയ ഒരു ശൃംഖലയായി മാറിയെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും അതിൽ നിന്ന് പുറത്തുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അത് ആരംഭിച്ചതുപോലെ ചെറിയ ബിറ്റുകളായി പോകുക അതിനാൽ നിങ്ങൾ ഒരു ദിവസം ഒരു പാക്കറ്റ് പുകവലിക്കുന്നതിനുപകരം 10 ന് പകരം ഞാൻ അത് 9 ഉം തുടർന്ന് 8 ഉം തുടർന്ന് 5 ഉം ആക്കുമെന്ന് തീരുമാനിക്കുക തുടർന്ന് നിങ്ങൾക്ക് 231 ലേക്ക് വരാം അങ്ങനെ ആവസാനം പതുക്കെ നിങ്ങൾ ചെറിയ ഭാഗങ്ങളാക്കി ചെയ്യണം തുടർന്ന് ആവൃത്തി വർദ്ധിപ്പിക്കുക ഞാൻ ഇന്നലെ ഒരെണ്ണം ചെയ്തു നാളെ ഞാൻ ഒരു അവധി നൽകാൻ പോകുന്നു തുടർന്ന് മറ്റെന്നാൾ ഒന്ന് അതിനാൽ ഇടവേളകൾ വർദ്ധിപ്പിക്കുക തുടർന്ന് ഇടവേളകൾ വീണ്ടും വർദ്ധിപ്പിക്കുക ആഴ്ചയിൽ ഒരിക്കൽ 15 ദിവസത്തിലൊരിക്കൽ മാസത്തിൽ ഒരിക്കൽ തുടർന്ന് 6 മാസത്തിലൊരിക്കൽ വർഷത്തിൽ ഒരിക്കൽ അങ്ങനെ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായും നിർത്താൻ കഴിയുമെന്ന് പതുക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നു അതിനാൽ നിങ്ങൾ അത് ചെറിയ ഭാഗങ്ങളാക്കി ആരംഭിച്ച അതേ രീതിയിൽ നിർത്തുക അതേ രീതിയിൽ നിങ്ങൾ മദ്യപാനം നോക്കുകയാണെങ്കിൽപ്പോലും അത് ആരംഭിക്കുന്നത് രുചിക്കും ശരീരത്തിനും പോലും വെറുപ്പുളവാക്കുന്ന ആദ്യ സിപ്പിൽ സിപ്പ് നിന്നാണ് ആളുകൾ മദ്യം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവർ ആദ്യത്തെ കുപ്പി കുടിക്കുമ്പോൾ മൂക്ക് അടയ്ക്കുകയും തുടർന്ന് കണ്ണുകൾ അടയ്ക്കുകയും ചെയ്യുന്നു കുറച്ച് സമയത്തിന് ശേഷം അവർക്ക് ദുർഗന്ധം പോലും സഹിക്കാൻ കഴിയില്ല എന്നാൽ കൂട്ട് ചിത്തരഞ്ജനം ആശ്വാസം സോഷ്യൽ നെറ്റ്വർക്കിംഗ് വിയോജിപ്പുള്ള കാര്യങ്ങൾ മറക്കാനുള്ള കഴിവ് അ ഇവയാണ് അതിനെ ഒരു ദുഷിച്ച കെണിയാക്കുന്നത് തുടർന്ന് ആസക്തി തുടരുന്നു എന്നാൽ ആദ്യത്തെ സിപ്പും കുറച്ച് സിപ്പുകളും യഥാർത്ഥത്തിൽ അപകടകരമായിരുന്നു പക്ഷേ അത് വെറുപ്പുളവാക്കുന്നതാണെങ്കിലും മറ്റ് ആകർഷകമായ ഘടകങ്ങൾ കാരണം അവ തുടർന്നു ഇപ്പോൾ നിങ്ങൾ പരിസ്ഥിതിയും വലയവും മാറ്റുകയും അതിൽ നിന്ന് പുറത്തുവരികയും വർദ്ധിച്ച വിടവുകളിൽ ചെറിയ ബിറ്റുകളായി വീണ്ടും അതേ കാര്യം പിന്തുടരുകയും വേണം അതുപോലെ ഒരു മോശം ശീലം മാറ്റാനുള്ള നിങ്ങളുടെ ആദ്യ ശ്രമം ആരംഭിക്കണം അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ ക്രമേണ വിടവ് വർദ്ധിപ്പിക്കുക ഉപയോഗത്തിന്റെ ആവൃത്തി കുറയ്ക്കണം മോശം ശീലങ്ങൾ സാധാരണയായി എന്നെന്നേക്കുമായി അപ്രത്യക്ഷമാകില്ല ഇത് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യമാണ് ശീലങ്ങൾ അപ്രത്യക്ഷമായെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾ ശീലം ആരംഭിച്ചുകഴിഞ്ഞാൽ അവ നിങ്ങളുടെ മനസ്സിൽ എവിടെയോ ഒളിഞ്ഞിരിക്കുന്നു മസ്തിഷ്കം അത് അത്ര എളുപ്പത്തിൽ ഉപേക്ഷിക്കാൻ പോകുന്നില്ല ഒരു വർഷത്തിനുശേഷം നിങ്ങൾ പുകവലിയോ മദ്യപാനമോ നിർത്തിയെന്ന് ഞാൻ പറയുമ്പോഴും എന്നാൽ നിങ്ങൾ സുഹൃത്തിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന വളരെ അടുത്ത സുഹൃത്തായ ഒരാൾ വന്ന് വളരെ സന്തോഷകരമായ ഒരു വാർത്ത പങ്കിടുന്നു വരൂ നമുക്ക് ഒരു പാനീയമോ സിഗരറ്റോ കഴിക്കാം ഇത് വളരെ സങ്കടകരമായ നിമിഷത്തിലും സംഭവിക്കാം എന്ന് അദ്ദേഹം പറയുന്നു നിങ്ങൾ മദ്യപിക്കുന്നതും പുകവലിക്കുന്നതും നിർത്തണമെന്ന് ആഗ്രഹിച്ച പെൺകുട്ടി നിങ്ങളെ വിവാഹം കഴിച്ചവൾ നിങ്ങളെ ഉപേക്ഷിച്ചവർ നിരാശയും നിരാശയും കോപവും നിറഞ്ഞ ആ നിമിഷത്തിൽ നിങ്ങൾ വീണ്ടും പോയി ഏകദേശം 10 വർഷത്തേക്ക് പോയി എന്ന് കരുതിയ അതേ ശീലം തുടരുന്നു അതിനാൽ നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ശീലങ്ങൾ ഉണ്ടാകും മോശം ശീലങ്ങൾ എന്നെന്നേക്കുമായി അപ്രത്യക്ഷമാകില്ല നിങ്ങൾ നല്ല ശീലങ്ങൾ രൂപപ്പെടുത്തുകയാണെങ്കിലും അവിടെയും നല്ലതും ചീത്തയുമായ ശീലങ്ങൾ നിലനിൽക്കുന്നു ഇത് കൊഴുപ്പുള്ള വയറിന് താഴെയുള്ള സിക്സ് പായ്ക്ക് പോലെയാണ് സിക്സ് പായ്ക്ക് പൂർണ്ണമായും ഏതെങ്കിലും ബാഹ്യ സ്രോതസ്സിൽ നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതുപോലെയല്ല അത് നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങൾ അത് പുറത്തുകൊണ്ടുവരണം അതിനെ മൂടുന്ന കൊഴുപ്പ് കുറയ്ക്കുകയും തുടർന്ന് കൊഴുപ്പിനെ പേശികളാക്കി മാറ്റുകയും ഉചിതമായ സ്ഥലങ്ങളിൽ അതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക അതിനാൽ നിങ്ങൾ അത് വെളിപ്പെടുത്തുമ്പോൾ അത് ഇതിനകം മറഞ്ഞിരിക്കുന്നു നിങ്ങൾ കൊണ്ടുവരുന്നതും മറഞ്ഞിരിക്കുന്ന നല്ല ശീലങ്ങൾ വെളിപ്പെടുത്തുന്നതും മോശമായവ മറയ്ക്കപ്പെടുന്നതും പുതിയതല്ല അതിനാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് മോശം ശീലം തകർക്കാൻ കഴിയും മറ്റൊരു കാര്യം ഒരു മോശം ശീലത്തിന് പകരം ഒരു നല്ല ശീലം കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നതാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് പുകവലി നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഗം ചവയ്ക്കുന്നത് പോലുള്ള ബദൽ എന്തെങ്കിലും പരീക്ഷിക്കണമെന്ന് അവർ പറയുന്നു അതിനാൽ നിങ്ങളുടെ വായയ്ക്ക് ഇത് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ള എന്തെങ്കിലും ആവശ്യമാണ് നിങ്ങൾക്ക് പൂർണ്ണമായും ഒരു ആസക്തിയായി മാറിയ കാപ്പി കുടിക്കുന്നത് ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ആവൃത്തി കുറയ്ക്കാൻ ശ്രമിക്കുക അതേ സമയം ഗ്രീൻ ടീ പോലുള്ളവ ഉപയോഗിച്ച് പകരം വയ്ക്കാൻ ശ്രമിക്കുക അതിനാൽ ഒരു കാപ്പിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന അതേ തരത്തിലുള്ള ഊർജ്ജം നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ അത് ഹാനികരമല്ല അതിനാൽ മാറ്റാൻ ശ്രമിക്കുക യഥാർത്ഥത്തേക്കാൾ മോശമല്ലാത്ത ഒരു പകരക്കാരനെ കണ്ടെത്താൻ ശ്രമിക്കുക പതുക്കെ നിങ്ങൾക്ക് ഒരു നല്ല ശീലം വികസിപ്പിക്കാൻ കഴിയും പിന്നെ പരീക്ഷണ സമയങ്ങളിൽ നല്ല ശീലം ശക്തിപ്പെടുത്തുന്നത് വീണ്ടും വളരെ പ്രധാനമാണ് അതിനാൽ മദ്യപിക്കാതിരിക്കുക എന്ന ഈ നല്ല ശീലം നിങ്ങൾ വളർത്തിയെടുത്തതുപോലുള്ള പരീക്ഷണ സമയങ്ങളുണ്ട് പരീക്ഷണ സമയങ്ങൾ നിങ്ങൾ വിഷാദത്തിലായിരിക്കുന്നു മുമ്പത്തേതിനേക്കാൾ വളരെ വിഷാദത്തിലാണ് നിങ്ങൾ തുടങ്ങിയപ്പോൾ നിങ്ങൾ വിഷാദത്തിലായിരുന്നപ്പോൾ ഇത് ഒരു പരീക്ഷണ സമയമാണ് എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ തലച്ചോറിനോട് പറയേണ്ട സമയമാണിത് ഞാൻ ആ ശീലം പുനരാരംഭിക്കാൻ പോകുന്നില്ല പിന്നെ കാലതാമസത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന മറ്റൊരു കാര്യം മറ്റൊരു ശീലമാണ് പല കാര്യങ്ങൾക്കും അനാവശ്യമായി കാലതാമസം വരുത്തുന്ന കാരണങ്ങൾ നിങ്ങൾ തകർക്കേണ്ടതുണ്ട് സാധാരണയായി ഒരു വലിയ ദൌത്യം കാണുമ്പോൾ നിങ്ങൾ കാലതാമസം വരുത്തുന്നു വാസ്തവത്തിൽ ടാസ്ക് ശേഖരിക്കപ്പെടുകയും പിന്നീട് അത് വലുതായി മാറുകയും ചെയ്യുന്നു കാരണം അത് വളരെ ചെറുതും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്നതുമായ സമയത്ത് നിങ്ങൾ അതിൽ പങ്കെടുത്തില്ല എന്നാൽ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു കഠിനമായ ദൌത്യം പോലെ തോന്നുന്ന ഈ വലിയ ദൌത്യം നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും നിങ്ങൾ എങ്ങനെയാണ് ആനയെ തിന്നുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ ഒരു ആനയെ പയ്യെ പയ്യെ തിന്നുമെന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലിൽ നിന്നാണ് ഉത്തരം നൽകുന്നത് അതിനാൽ നിങ്ങൾ അത് മുഴുവനായും കഴിക്കുന്നില്ല പക്ഷേ നിങ്ങൾ അത് കുറച്ച് കുറച്ച് കഴിക്കുന്നു അതിനാൽ നിങ്ങൾ എന്തുചെയ്യണം വലിയ ജോലികൾ കൈകാര്യം ചെയ്യാവുന്ന ചെറിയ ഭാഗങ്ങളായി വിഭജിക്കണം നിങ്ങൾ ഇത് തീരുമാനിക്കുമ്പോൾ ഈ പ്രവർത്തനം ഒരാഴ്ചയിലേക്ക് മുഴുവനായി വ്യാപിക്കുന്നു അതിനാൽ ഈ ആഴ്ഴ്ച ഞാൻ ഇന്തുചെയ്യുമെന്ന് ആലോചിക്കുന്നതിന് പകരം ഈ ഒരാഴ്ചത്തെ കാര്യങ്ങളെ ഞാൻ ഏഴ് ഇനങ്ങളായി വിഭജിക്കുമെന്നും ഓരോ ദിവസവും ഞാൻ അത്രമാത്രമേ ചെയ്യൂ എന്നും തീരുമാനിക്കണം ഇപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്തുകഴിഞ്ഞാൽ ഓരോ ദിവസവും നിയന്ത്രിക്കാവുന്ന ഒരു ഭാഗം ഓരോ തവണയും നിങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ഡോപാമൈൻ പുറത്തുവിടുന്നു അത് അടുത്ത ഭാഗം എടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു ഇത് വളരെ വലുതാണെന്ന് ചിന്തിക്കുന്നതിനും അമിതമായി തോന്നുന്നതിനുപകരം എനിക്ക് അത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല നിങ്ങൾ അവയെ ഭാഗങ്ങളായി വിഭജിച്ച് വ്യക്തിഗതമായി കൈകാര്യം ചെയ്യുകയും ഡോപാമൈൻ പുറത്തുവിടുകയും ചെയ്യുക അതിനാൽ ചെറിയ ഭാഗം ചെയ്യുന്നതിൽ പോലും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുകയും നിങ്ങൾ പ്രവർത്തനം പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ ഒരുതരം ആനന്ദം നേടുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഫിനിഷ് ലൈൻ കാണാൻ കഴിയാത്തപ്പോൾ ഊർജ്ജ നില താഴുകയും ഡോപാമൈൻ പുറത്തുവിടാതിരിക്കുകയും അത് എതിർവശത്ത് പ്രവർത്തിക്കുകയും ചെയ്യും ഒരു പുസ്തകം എഴുതാൻ 3 വർഷമെടുക്കുമെന്ന് നമുക്ക് പറയാം അതിന് വളരെയധികം സമയമെടുക്കുമെന്ന് നിങ്ങൾ കരുതുമ്പോൾ അത് നിങ്ങളെ തളർത്തും അതിനാൽ ഞാൻ ഇപ്പോൾ ഫിനിഷ് ലൈൻ കാണുന്നില്ല അതിനാൽ ഒരു പുസ്തകം എഴുതുന്നതിനുപകരം ഞാൻ കുറച്ച് ചെറിയ ലേഖനം എഴുതുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും അതിൽ എനിക്ക് സന്തോഷം തോന്നും അതിനാൽ ചില പ്രവർത്തനങ്ങൾക്ക് സമയമെടുക്കും അതിനാൽ ഞാൻ പുസ്തകത്തിന് നൽകിയ ഉദാഹരണം നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യാവുന്ന അധ്യായങ്ങളായി വിഭജിക്കുന്നു ചില ആളുകൾ ഒരു ദിവസം കുറഞ്ഞത് 10 പേജുകളെങ്കിലും എഴുതുമെന്ന് തീരുമാനിക്കുന്നു ചില ആളുകൾ ഒരു ദിവസം ഒരു പേജ് മാത്രം എഴുതുമെന്ന് തീരുമാനിക്കുകയും ഓരോ ദിവസവും നിങ്ങൾ ഫിനിഷ് ലൈൻ കാണുകയും ചെയ്യുന്നു തുടർന്ന് നിങ്ങൾക്ക് ഡോപാമൈൻ അഡ്രിനാലിൻ എന്നിവ ലഭിക്കും ഞാൻ ഇതിനകം നിങ്ങളോട് സംസാരിച്ച അഡ്രിനാലിൻ നിങ്ങൾ കൂടുതൽ ഊർജ്ജം ആവശ്യമുള്ള ഒരു പോരാട്ടത്തിലോ സാഹചര്യത്തിലോ ഉള്ള അത്തരം അടുത്ത ഏറ്റുമുട്ടലുകളിൽ വരുന്നു അതിനാൽ അതും നിങ്ങളെ സഹായിക്കുന്നു പക്ഷേ വിരസത നിരാശ അല്ലെങ്കിൽ വിഷാദം പോലുള്ള നെഗറ്റീവ് വൈകാരികാവസ്ഥ മൂലമാണ് മിക്ക മോശം ശീലങ്ങളും രൂപപ്പെടുന്നതെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നു മിക്കപ്പോഴും നിങ്ങൾ തന്നെ നിങ്ങളെ ആ തലത്തിലേക്ക് കൊണ്ടുപോയി കാരണം നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത് ഒഴിവാക്കിയതിനാൽ നിങ്ങൾ അത് അപൂർണ്ണമാക്കാൻ അനുവദിക്കുകയും അത് നിങ്ങളെ കീഴടക്കാൻ അനുവദിക്കുകയും തുടർന്ന് നിങ്ങൾ ആ ഘട്ടത്തിലെത്തുകയും ചെയ്യുന്നു അതിനാൽ അലസതയെ എതിർക്കുക പ്രവർത്തനത്തിലൂടെയുള്ള അലസതയുടെ ഉയരം നിങ്ങളുടെ ജീവിതത്തിന്റെയും കരിയറിന്റെയും വിവിധ വശങ്ങളിൽ നിങ്ങളെ തിരക്കിലാക്കുകയും അമിതഭാരമുള്ളവരാക്കുകയും ചെയ്യുന്നു നിങ്ങൾ രാവിലെ നിങ്ങളുടെ ഓഫീസിൽ എന്തെങ്കിലും പൂർത്തിയാക്കുന്നു വൈകുന്നേരം നിങ്ങൾക്ക് വളരെ രസകരമായ ഒരു വിനോദമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പോയി മറ്റേതെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു നിങ്ങളുടെ പ്രൊഫഷണൽ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിൽ സ്വയം തിരക്കിലായിരിക്കുക നിങ്ങളുടെ അപ്പവും വെണ്ണയും സമ്പാദിക്കുന്നതിനായി നിങ്ങൾ ചെയ്യുന്ന പ്രധാന ജോലിക്ക് പുറമെ നിരവധി ക്ലബ്ബുകളിൽ ഏർപ്പെടാൻ നിങ്ങളെ അനുവദിക്കുന്നു ഇപ്പോൾ ഇത് നിങ്ങളെ എങ്ങനെ സഹായിക്കും അലസതയിൽ നിന്ന് പുറത്തുവരാൻ ഇത് നിങ്ങളെ സഹായിക്കും ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട് പക്ഷേ നിങ്ങൾ ഒരു ഗെയിം കളിക്കാൻ പോയി തുടർന്ന് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടി തുടർന്ന് നിങ്ങൾ ഗെയിം വിജയിച്ചു ആളുകൾ നിങ്ങളെ അഭിനന്ദിച്ചു എല്ലാ ജോലി സമ്മർദ്ദവും പൂർണ്ണമായും ശമിക്കുകയും അരമണിക്കൂർ ഗെയിം കളിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആശ്വാസം അനുഭവപ്പെടുകയും ചെയ്തു അതിനാൽ സ്വയം അമിതഭാരമുള്ളവരായി തുടരുക തുടർന്ന് നിങ്ങൾക്ക് അമിതഭാരമുള്ളതായി വരുന്ന സന്തോഷം ആസ്വദിക്കുക അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം തുടർന്ന് നിങ്ങൾ എല്ലാ ജോലികളും പൂർത്തിയാക്കും തുടർന്ന് നിങ്ങളിലെ ഡോപാമൈൻ തിരക്ക് നിങ്ങൾ ആസ്വദിക്കും ഞാൻ ഇപ്പോൾ മോശം ശീലങ്ങളെക്കുറിച്ച് സംസാരിച്ചു നിങ്ങൾക്ക് മോശം ശീലങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാം ഒരു മാർഗ്ഗനിർദ്ദേശ തത്വം കൂടി മനസ്സിൽ വച്ചുകൊണ്ട് നിങ്ങൾ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കേണ്ടതിനാൽ നിങ്ങളുടെ തലച്ചോറിനെ പ്രകാശവും സ്വതന്ത്രവുമായി നിലനിർത്താൻ എല്ലായ്പ്പോഴും തീരുമാനിക്കുക നിങ്ങളുടെ തലച്ചോറിനെ പ്രകാശവും സ്വതന്ത്രവുമായി നിലനിർത്താൻ മോശം ശീലങ്ങളിൽ നിന്ന് ഉണ്ടാകാനിടയുള്ള അമിതമായ കൊഴുപ്പ് നിങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് നിങ്ങൾ വികസിപ്പിച്ചെടുത്ത കൊഴുപ്പുള്ള മോശം ശീലങ്ങൾ കാരണം തലച്ചോറും ധാരാളം കൊഴുപ്പ് ശേഖരിക്കുന്നു പിന്നെ അത് കൈവശപ്പെടുത്തുന്നു തുടർന്ന് അത് ഊർജ്ജസ്വലമാക്കുന്നില്ല അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ തലച്ചോറിനെയും മനസ്സിനെയും സ്വതന്ത്രമാക്കുന്ന നല്ല ശീലങ്ങൾ പരിശീലിക്കണം നിങ്ങളുടെ തലച്ചോറിനെയും മനസ്സിനെയും സ്വതന്ത്രമാക്കാൻ കഴിയുന്ന ചില നല്ല ശീലങ്ങൾ ഏതൊക്കെയാണ് തലച്ചോറ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ തലയോട്ടിയുടെ മുകൾ ഭാഗത്തിനുള്ളിൽ അക്ഷരാർത്ഥത്തിൽ ഉള്ള ഭൌതിക ഭാഗമാണ് മനസ്സ് തലച്ചോറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് പക്ഷേ അതിൽ നിന്ന് ആയിരിക്കണമെന്നുമില്ല പക്ഷേ മനസ്സ് ഒരുതരം സമഗ്രമായ ഉൾക്കൊള്ളുന്ന ആശയമാണ് അതിനാൽ അതിൽ മറ്റ് നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുന്നു നിങ്ങളുടെ ബോധപൂർവമായ മനസ്സ് ഉപബോധമനസ്സ് കൂട്ടായ മനസ്സ് തുടങ്ങിയവ അത് രണ്ടും നിങ്ങൾക്കതീതമാണ് തലച്ചോറ് വീർപ്പുമുട്ടുകയും ഞെരിയുകയുമെങ്കിൽ മനസ്സും ഞെരുക്കപ്പെടുന്നു നിങ്ങളുടെ മനസ്സും സ്വതന്ത്രമാകുന്നതിന് നിങ്ങൾ തലച്ചോറിനെ സ്വതന്ത്രമാക്കേണ്ടതുണ്ട് തലച്ചോറും മനസ്സും സ്വതന്ത്രമാക്കുന്നതിന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ അത് ഒടുവിൽ നല്ല ശീലങ്ങൾ വികസിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കും തുടർന്ന് അത് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും പോയിന്റ് നമ്പർ 1 ഒരു ജോലിയും പൂർത്തിയാകാതെ മുഴുമിക്കാത്തെ അപൂർണ്ണമായി ഉപേക്ഷിക്കരുത് ശ്രദ്ധിക്കപ്പെടാതെ അവശേഷിക്കുന്ന ഏതൊരു ജോലിയും നിങ്ങൾ അതിലേക്ക് മടങ്ങുകയും അത് പൂർത്തിയാക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും നിങ്ങൾ അത് പൂർത്തിയാക്കാൻ വിസമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് പൂർത്തിയാക്കാൻ വിസമ്മതിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ തലച്ചോറിൽ ഭാരമായി തൂങ്ങിക്കിടക്കും ഇത് പുതിയ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള നിങ്ങൾക്ക് ഇടം കുറയ്ക്കും അതിനാൽ ആദ്യത്തേത് ഒന്നും പൂർത്തിയാകാതെ വിടരുത് രണ്ടാമത്തേത് നിങ്ങൾക്ക് അത് പൂർത്തിയാകാതെ വിടാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങളുടെ തലച്ചോറിൽ വളരെയധികം ഭാരം ഉണ്ടാകാൻ പോകുന്നുവെന്നും അത് പുതിയ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ അനുവദിക്കില്ലെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം മൂന്നാമത്തെ പോയിന്റ് ഒരു സീരിയലൈസ്ഡ് നോവൽ വായിക്കുകയോ ഒരു ടെലിവിഷൻ സീരിയൽ കാണുകയോ ചെയ്യുന്നത് നിങ്ങളെ സീരിയൽ അടിമകളാകുന്ന ശീലത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളെ ഗെയിം അഡിക്റ്റ് ആക്കുന്ന ഗെയിമുകളുടെ കാര്യത്തിലും ഇത് ബാധകമാണ് ഐഐടിയുടെ വലിയ സ്ഥാപനങ്ങളിൽ പോലും ബുദ്ധിമാന്മാർ ആയ നിരവധി ചെറുപ്പക്കാർക്ക് അവരുടെ കരിയർ നഷ്ടപ്പെട്ടു കാരണം അവർ ഗെയിം അടിമകളായി മാറി മസ്തിഷ്കത്തിന്റെ ഈ വശം അവരെ പിടികൂടുകയും അവരെ അടിമകളാക്കുകയും പിന്നീട് വഴിതെറ്റിക്കുകയും പിന്നീട് അവരെ പശ്ചാത്തപിക്കുകയും ചെയ്തുവെന്ന് അവർ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അവർ വികസിപ്പിച്ച ഒരു മോശം ശീലം കാരണം അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തു തുടർന്ന് അവർ ജീവിതത്തിൽ എന്നെന്നേക്കുമായി ഖേദിക്കുന്നു വിജയത്തിലേക്ക് നയിക്കുന്ന നല്ല ശീലങ്ങൾ നിങ്ങൾ എങ്ങനെ വികസിപ്പിക്കും വാസ്തവത്തിൽ നിങ്ങൾ നല്ല ശീലങ്ങളും വിജയങ്ങളും നോക്കുകയാണെങ്കിൽ അവ കൈകോർക്കുന്നു നല്ല ശീലങ്ങൾ ഉള്ളിടത്തെല്ലാം വിജയം സ്വയമേവ വരും അല്ലെങ്കിൽ നിങ്ങൾ ഒരു വിജയകരമായ വ്യക്തിയെ നോക്കുകയും അവൻ എങ്ങനെ വിജയം കൈവരിച്ചുവെന്ന് വിശകലനം ചെയ്യുകയും ചെയ്താൽ അവൻ അല്ലെങ്കിൽ അവൾ നിരവധി നല്ല ശീലങ്ങൾ ശേഖരിച്ചതായി നിങ്ങൾ മനസ്സിലാക്കും അതിനാൽ അവ കൈകോർക്കുന്നു നല്ല ശീലങ്ങൾ നിങ്ങളുടെ കാര്യക്ഷമതയുടെ നിലവാരം നിർണ്ണയിക്കുകയും നിങ്ങളുടെ ബോസിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും നിങ്ങൾക്ക് ധാരാളം സ്നേഹവും ബഹുമാനവും നേടുകയും ചെയ്യുന്നു ഏതൊരു നല്ല ശീലവും അത് സമയനിഷ്ഠയായിരിക്കട്ടെ അത് മനോഹരമായ രീതിയിൽ സ്വയം പരിപോഷിപ്പിക്കട്ടെ നന്നായി മാന്യമായി സംസാരിക്കുന്ന കാര്യത്തിൽ അത് നിങ്ങളുടെ ആശയവിനിമയ വൈദഗ്ധ്യമായിരിക്കട്ടെ വ്യക്തിപരമായ ആശയവിനിമയത്തിൽ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ സോഫ്റ്റ് കഴിവുകളും ഉപയോഗിക്കുന്നു ഇത് നിങ്ങളുടെ സമയ മാനേജ്മെന്റ് കഴിവുകളായിരിക്കട്ടെ സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവായിരിക്കട്ടെ സമ്മർദ്ദത്തെ നേരിടാനോ നിങ്ങളുടെ ശീലങ്ങൾ കൈകാര്യം ചെയ്യാനോ ഉള്ള നിങ്ങളുടെ കഴിവായിരിക്കട്ടെ അത് അതിനാൽ നിങ്ങളുടെ കാര്യക്ഷമതയെ നിർണ്ണയിക്കുന്നത് ആ നല്ല ശീലങ്ങളാണെന്ന് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് മനസ്സിലാകും നിങ്ങൾ വളരെ കാര്യക്ഷമമാണ് കാരണം നിങ്ങൾക്ക് വളരെ വികസിതമായ നല്ല ശീലങ്ങളുണ്ട് അത് ആളുകൾ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ ഉയർന്ന തലത്തിൽ നിന്ന് ബഹുമാനിക്കുകയും ചെയ്യും അതായത് നിങ്ങളുടെ ബോസും നിങ്ങളുടെ സഹപ്രവർത്തകരും ഈ നല്ല ശീലങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരു പ്രധാന കാര്യം ചെയ്യാൻ പോകുന്നു അത് നിങ്ങളുടെ ജോലിയിൽ നിങ്ങളെ ഒഴിച്ചുകൂടാനാവാത്തതും മാറ്റാനാവാത്തതുമാക്കി മാറ്റും മിസ്റ്റർ കോപ് മേയറെയും മറ്റുള്ളവരെയും പോലുള്ള നിരവധി മികച്ച ബിസിനസ്സ് ഗുരുക്കന്മാർ ഒരു കാര്യം ആവർത്തിച്ച് പറയുന്നു നിങ്ങൾ തൊഴിൽ സുരക്ഷയ്ക്കായി തിരയുകയാണെങ്കിൽ നിങ്ങളെ ഒഴിച്ചുകൂടാനാവാത്ത ആ നൈപുണ്യ സെറ്റുകൾ വികസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം അതായത് നിങ്ങൾ ചെയ്യുന്ന ചില ജോലികൾ മാറ്റിസ്ഥാപിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് മാത്രമേ അത് ഒരു പ്രത്യേക രീതിയിൽ ചെയ്യാൻ കഴിയൂ മറ്റാർക്കും അത് ചെയ്യാൻ കഴിയില്ല നിങ്ങളുടെ പങ്ക് മാറ്റാൻ കഴിയില്ല പരിഷ്ക്കരിക്കാൻ കഴിയില്ല മാറ്റാൻ കഴിയില്ല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആ പങ്ക് നിറവേറ്റാൻ ആർക്കും കഴിയില്ല അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതുപോലെ പൂർണ്ണമായും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ ഒഴിച്ചുകൂടാനാവാത്തവരും മാറ്റാനാവാത്തവരുമായിരിക്കണം അപ്പോൾ അത് നിങ്ങൾക്ക് വളരെയധികം സുരക്ഷ നൽകുന്നു ആത്യന്തികമായ സുരക്ഷിതത്വബോധവും തൊഴിൽ സംതൃപ്തിയുടെ ബോധവും നിങ്ങൾ നിങ്ങളുടെ ജോലി വളരെ നന്നായി ചെയ്യുന്നുവെന്ന് നിങ്ങൾക്കറിയുന്നു നിങ്ങൾ ഒരു സ്വകാര്യ സ്കൂളിലായാലും നിങ്ങൾ ഒരു പൊതു സ്കൂളിലായാലും നിങ്ങൾ ഒരു സർക്കാർ ഓഫീസിലായാലും കേന്ദ്ര സർക്കാരിലായാലും സംസ്ഥാന സർക്കാരിലായാലും നിങ്ങളെ പുറത്താക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല

നിങ്ങളെ ഒഴിച്ചുകൂടാനാവാത്തതാക്കുന്ന നിങ്ങളുടെ നല്ല ശീലങ്ങളാൽ നിർണ്ണയിക്കപ്പെടുന്നതെല്ലാം നിങ്ങൾക്ക് തൊഴിൽ സുരക്ഷ നൽകാൻ കഴിയുന്ന ഒരേയൊരു കാര്യമാണ് ഒരു റിട്ടേൺ ബോണ്ടും അല്ല തൊഴിലുടമയിൽ നിന്നുള്ള ഒരു പ്രതിബദ്ധതയുമല്ല എന്നിരുന്നാലും നിങ്ങൾ നല്ലവരായിരിക്കാം നിങ്ങൾ മോശം ശീലങ്ങൾ വളർത്തിയെടുക്കാൻ തുടങ്ങുന്ന നിമിഷം നിങ്ങളെ പുറത്താക്കാം കാരണം നിങ്ങൾ ഡിസ്പെൻസബിൾ ആകുന്നു അതിനാൽ നിങ്ങളുടെ ഭ്രാന്തൻ ശീലങ്ങൾ കാരണം ഒരിക്കലും ഉപേക്ഷിക്കപ്പെടാതിരിക്കുക നിങ്ങളുടെ നല്ല ശീലങ്ങൾ കാരണം ഒഴിച്ചുകൂടാനാവാത്തതും മാറ്റാനാവാത്തതുമായി മാറാൻ ശ്രമിക്കുക ഇപ്പോൾ വളരെ വിജയകരമായ ആളുകളുടെ ആ ശീലങ്ങൾ നിങ്ങളിൽ വളർത്തിയെടുക്കേണ്ട ചില ശീലങ്ങൾ നോക്കാം ഇപ്പോൾ വളരെ കഠിനാധ്വാനം ചെയ്യുക ഇപ്പോൾ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് അധിക ജോലി ചെയ്യേണ്ടതുണ്ട് ആ അധിക ജോലിക്ക് നിങ്ങൾക്ക് പ്രതിഫലം ലഭിച്ചില്ലെങ്കിലും പുഞ്ചിരിയോടെ അധിക ജോലി ചെയ്യുക നിങ്ങൾക്ക് ആ അധിക ജോലി ചെയ്യാൻ കഴിയുമെങ്കിൽ അത് സന്തോഷത്തോടെ ചെയ്യുക അത് എണ്ണി കണക്കാക്കരുത് മൂന്നാമത്തെ കാര്യം നിങ്ങൾ ആ ജോലി ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ വാച്ചിൽ നോക്കരുത് നിങ്ങൾ ജോലി ആരംഭിക്കുകയും അത് പൂർത്തിയാക്കുകയും തുടർന്ന് നിങ്ങളുടെ വാച്ചിൽ നോക്കുകയും വേണം നിങ്ങൾക്ക് എന്തൊക്കെ പദ്ധതികളാണുള്ളത് എന്ന് നോക്കുക അതിനുശേഷം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തുചെയ്യാൻ കഴിയും എന്ന് നോക്കുക അപ്പോൾ നിങ്ങൾ ഒരു ജോലി ചെയ്യുന്നു കാരണം അത് നിങ്ങളെ വ്യതിചലിപ്പിക്കും അത് വാച്ചിൽ നോക്കാതെ ടാസ്ക് പൂർത്തിയാക്കാൻ നിങ്ങളെ വഴിതിരിച്ചുവിടും വളരെ വിജയകരമായ ആളുകൾ വികസിപ്പിച്ചെടുത്ത മറ്റൊരു പ്രധാന ശീലമാണിത് നിങ്ങൾ വികസിപ്പിക്കേണ്ട നാലാമത്തെ ശീലം നിങ്ങൾ പൂർത്തിയാകുന്നതുവരെ ജോലി ചെയ്യുക ഒരു ജോലിയും അപൂർണ്ണമായി ഉപേക്ഷിക്കരുത് എന്നതാണ് അതിനാൽ നിങ്ങളുടെ മനസ്സ് ശാന്തമാകാനും ആ രാത്രി നിങ്ങൾക്ക് സമാധാനത്തോടെ ഉറങ്ങാനും കഴിയും ആ ദിവസത്തിനായി നിങ്ങൾ ഏറ്റെടുത്ത ജോലിയോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പദ്ധതിയിട്ടിരുന്ന നിരവധി പ്രവർത്തനങ്ങളോ അത് പൂർത്തിയാക്കുക സമാധാനത്തോടെ ഉറങ്ങാൻ പോകുക ആ രാത്രി നന്നായി ഉറങ്ങുക ഓ ഇന്ന് ഇത് ഒരു സമ്പൂർണ്ണ ജോലിയാണെന്ന് മസ്തിഷ്കം കരുതുന്നു തുടർന്ന് പൂർത്തിയാക്കി അതിനാൽ എനിക്ക് വിശ്രമിക്കാൻ കഴിയും അപൂർണ്ണമായ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള നുഴഞ്ഞുകയറ്റ ചിന്തകളാൽ ഞാൻ ഈ വ്യക്തിയെ ബുദ്ധിമുട്ടിക്കുകയില്ല നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്ന നല്ല ശീലം വളർത്തിയെടുക്കുന്നതിനെക്കുറിച്ചുള്ള അടുത്ത പോയിന്റ്ഃ എല്ലായ്പ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇത് ഒരു നിസ്സാര പ്രവർത്തനമാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സമയം ചെലവഴിക്കരുത് ഇന്ന് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് സ്വയം ചോദിക്കുക അടുത്ത ആറാമത്തേത് ഒരിക്കലും പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയുന്ന ഒരു കാര്യത്തിനായി കൂടുതൽ സമയം ചെലവഴിക്കരുത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പോലും കഴിയുന്ന ഒരു കാര്യത്തിനായി കൂടുതൽ സമയം ചെലവഴിക്കുകയാണെങ്കിൽ അത് തീർത്തും പാഴായിപ്പോകും ഉദാഹരണത്തിന് നിങ്ങളുടെ പെൻസിൽ മൂർച്ച കൂട്ടുന്നത് പോലെയുള്ള ഒരു ലളിതമായ കാര്യം എടുക്കുക ഇപ്പോൾ നിങ്ങൾ ഒരു ബ്ലേഡ് എടുത്ത് മൂർച്ച കൂട്ടാൻ തുടങ്ങുന്നു തുടർന്ന് നിങ്ങൾ വളരെ മനോഹരമായി കാണപ്പെടാൻ ആഗ്രഹിക്കുന്നു തുടർന്ന് നിങ്ങൾ അത് മൂർച്ച കൂട്ടാൻ ഏകദേശം 1 മണിക്കൂർ ചെലവഴിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഒരു ഷാർപ്പ്നർ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കാം അത് നിങ്ങൾക്കായി ചെയ്യാൻ ആളുകളോട് ആവശ്യപ്പെടാൻ കഴിയുന്ന ഒരു സ്ഥാനത്താണെങ്കിൽ അത് ഒഴിവാക്കാം എന്നാൽ പലപ്പോഴും നിങ്ങൾ ഒരു മണിക്കൂർ ഒരു ചെറിയ പ്രവർത്തനത്തിൽ ചെലവഴിക്കുന്നു നിങ്ങളെ വളർച്ചയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ചെലവഴിക്കാം അതിനാൽ ഒരിക്കലും പൂർണ്ണമായും സാധ്യമായ ഒരു കാര്യത്തിനായി കൂടുതൽ സമയം ചെലവഴിക്കരുത് അവസാനമായി ഈ പ്രഭാഷണത്തിനായി 100 ശതമാനം ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾ ചെയ്യുന്ന ഏത് ജോലിയിലും പൂർണ്ണമായും ഒഴിവാക്കുക ശരീരം മനസ്സ് തുടർന്ന് ആത്മാവ് വികാരങ്ങൾ എന്നിവയെല്ലാം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ നിങ്ങൾക്ക് സ്വയം 100 ശതമാനം സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് വേഗത്തിൽ നിങ്ങൾ അത് പൂർത്തിയാക്കുകയും ചെയ്യും കുട്ടിക്കാലത്തെ പരീക്ഷണമോ കുട്ടിക്കാലത്തെ സന്തോഷമോ ഞാൻ ഓർക്കുന്നു നിങ്ങൾക്ക് ഒരു ലെൻസ് നൽകുമ്പോൾ നിങ്ങൾ പോലും അത് ഓർക്കും നിങ്ങൾക്ക് ലെൻസ് എടുത്ത് ഒരു പേപ്പറിന് മുകളിൽ വയ്ക്കാനും സൂര്യകിരണത്തെ അതിലൂടെ കടന്നുപോകാൻ അനുവദിക്കാനും കഴിയുമെങ്കിൽ സൂര്യകിരണങ്ങൾ ചിതറിക്കിടക്കുമ്പോൾ നിങ്ങൾക്ക് അത് ടാപ്പുചെയ്യാൻ കഴിയില്ല എന്നാൽ നിങ്ങൾ ഒരു ലെൻസ് തിരഞ്ഞെടുക്കുകയും അത് ഒരുതരം ലേസർ ബീം ആയി വിടുകയും പേപ്പറിലോ തീപ്പെട്ടിയിലോ സ്പർശിക്കുകയും ചെയ്താൽ അത് പൂർണ്ണമായും കത്തിക്കാൻ കഴിയും എന്ന് മുതിർന്ന അധ്യാപകർ ഞങ്ങളെ പഠിപ്പിച്ചു അതാണ് ഏകാഗ്രതയുടെ ശക്തി നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും മഹത്തായ വിജയത്തോടെ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയുന്ന ബോധം മറ്റ് ആളുകളേക്കാൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും കാരണം നിങ്ങളുടെ മനസ്സ് വളരെ മൂർച്ചയുള്ള അവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത് പൂർണ്ണ ശ്രദ്ധയും വ്യക്തതയും ഉള്ള ഒന്നിനും അതിനെ വ്യതിചലിപ്പിക്കാൻ കഴിയില്ല അതിനാൽ ആ അളവിലുള്ള ഏകാഗ്രത വികസിപ്പിക്കുക നിങ്ങൾ പൂർണ്ണമായും വ്യതിചലിക്കുന്ന ഈ ലോകത്ത് ഇത് ശരിക്കും ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് അത് എങ്ങനെ ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു പ്രഭാഷണം ചെലവഴിക്കും എന്നാൽ ഈ സമയത്ത് നിങ്ങളുടെ വിജയ ശീലം വികസിപ്പിക്കുന്നതിന് 100 ശതമാനം ഏകാഗ്രത വളരെ പ്രധാനമാണെന്ന് ഓർക്കുക ഇപ്പോൾ ഉപസംഹാരത്തിലേക്ക് ഞാൻ വായിച്ച ഒരു ലേഖനം പൂർത്തിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ബോധപൂർവവും സുസ്ഥിരവുമായ മാറ്റത്തിന്റെ താക്കോൽ ബോധപൂർവമായ ജീവിതത്തെക്കുറിച്ചുള്ള ഷെല്ലിയുടെ ശൈലിയാണ് അതിൻറെ സമാപന ഭാഗം മുഴുവൻ ലേഖനവും നെറ്റിൽ ലഭ്യമാണ് നിങ്ങൾക്ക് അത് വായിക്കാൻ കഴിയും എന്നാൽ ഈ ഭാഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ആഴ്ചയിലെ ശീലങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ മുഴുവൻ ചർച്ചയ്ക്കും ഇത് ഉചിതമായ നിഗമനമാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ജീവിതം നയിക്കാനും എല്ലാ മേഖലകളിലും മികച്ച പ്രകടനം നേടാനും കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെന്നതിൽ ഒരു സംശയവുമില്ല സംശയാസ്പദമായ നെഗറ്റീവ് ചിന്തകളെ നിങ്ങൾ ഭയപ്പെടുന്ന മിക്ക സമയത്തും യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ലെന്ന് കുരങ്ങനെപ്പോലെ മനസ്സിൽ പൊട്ടിത്തെറിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ജീവിതം നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് മികച്ച പ്രകടനം നേടാൻ കഴിയും ഒരു വശത്തല്ല മറിച്ച് ജീവിതത്തിന്റെ അപ്രതീക്ഷിത മാറ്റങ്ങളെയും പരിവർത്തനങ്ങളെയും അതിജീവിക്കാൻ മാത്രമല്ല അഭിവൃദ്ധി പ്രാപിക്കാനും നിങ്ങൾക്ക് കഴിയില്ല പരീക്ഷണ സമയങ്ങളിൽ പോലും നിങ്ങൾ വിജയ ശീലങ്ങൾ വികസിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടും തുടർന്ന് നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും നിങ്ങൾ വളരും നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും ശക്തമായ മാറ്റം സാധ്യമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ജീവിതം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് പൂർണ്ണമായും കഴിവുണ്ട് അത് ഒരു കുറിപ്പോടെ ഇത് അവസാനിപ്പിച്ചേക്കാം പക്ഷേ വ്യതിരിക്തമായിരിക്കുക തിരഞ്ഞെടുക്കുന്നതിൽ പൂർണ്ണമായും ശ്രദ്ധാലുവായിരിക്കുക നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നല്ല ശീലങ്ങൾ വിജയകരമായ ശീലങ്ങൾ വികസിപ്പിക്കുകയും നിങ്ങളുടെ വ്യക്തിത്വം വികസിപ്പിക്കുകയും വളരെ വിജയിക്കുകയും ചെയ്യും ആത്യന്തികമായി സന്തോഷത്തോടെ സമാധാനത്തോടെ തുടരാനും പശ്ചാത്താപമില്ലാതെ ഒരു ജീവിതം നയിക്കാനും കഴിയും ഈ വീഡിയോ കണ്ടതിന് നന്ദി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഒരു നല്ല വാരാന്ത്യം ആശംസിക്കുന്നു എന്നിട്ട് വ്യായാമം ചെയ്യുക നൽകിയ അസൈൻമെന്റ് ചെയ്ത് തയ്യാറാക്കുക അസൈൻമെന്റ് ചെയ്യുന്നത് നിങ്ങൾ ആസ്വദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദിയും പറഞ്ഞു